ഹലോ എല്ലാവർക്കും Secure System Engineering എന്ന കോഴ്സ് ലേക്ക് സ്വാഗതം ഇത് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി കോഴ്സ് സീരീസ് ഇൽ അഞ്ചാമത്തേത് ആണ് ഇത് ഒരു 8 weeks കോഴ്സ് ആണ് ഈ കോഴ്സ്ൽ ഒരു സിസ്റ്റം എങ്ങിനെ സെക്യുർ ആയി ബിൽറ്റ് ചെയ്യണമെന്നാണ് പഠിക്കുന്നത് അതിനാൽ സുരക്ഷിത സിസ്റ്റം എന്നതു കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ആമുഖത്തോടെ ഈ ക്ലാസ് ആരംഭിക്കാം നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഭീഷണികൾ എന്തൊക്കെയാണ് ഈ threats ലഘൂകരിക്കുന്നതിനുള്ള നിലവിലെ രീതികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അതിനാൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഇതുപോലുള്ള ഒരു closed box നമുക്ക് പരിഗണിക്കാം ഇപ്പോൾ ഇതൊരു ബോക്സാണ് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ല അതിനാൽ ഈ ബോക്സിലേക്ക് ഒന്നും പ്രവേശിക്കാത്തതോ അല്ലെങ്കിൽൽ ഒന്നും ഈ ബോക്സിൽ നിന്ന് പുറത്തുപോകുന്നതോ വരെ ഈ ബോക്സിലെ ഉള്ളടക്കം സുരക്ഷിതമാണ് വളരെ സമാനമായ രീതിയൽ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെ പരിഗണിക്കുമ്പോൾ കമ്പ്യൂട്ടർ പൂർണ്ണമായും ബാഹ്യ ലോകത്തു നിന്ന് വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വിവരവും കമ്പ്യൂട്ടറിലേക്ക് പോകുന്നില്ല ഒരു വിവരവും കമ്പ്യൂട്ടറിൽ നിന്ന് പുറത്ത് പോകുന്നില്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ കഴിയും എന്നിരുന്നാലും ഇത് പ്രായോഗികമായി സംഭവിക്കുന്നില്ല പ്രായോഗികമായി കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ചുറ്റും ധാരാളം വൈറസുകൾ സ്പൈവെയർ എന്നിവയുണ്ട് ഈ സ്പൈ വെയറുകൾ സിസ്റ്റത്തിൽ ഉണ്ടാകണമെന്നില്ല പക്ഷേ ഇത് സിസ്റ്റത്തിന് പുറത്തായിരിക്കും അത്തരമൊരു സാഹചര്യത്തിൽ സിസ്റ്റം സുരക്ഷിതമാണ് കാരണം സിസ്റ്റത്തിനുള്ളിലെ ഇൻഫോർമേഷൻ ബോക്സിനുള്ളിൽ ആയതു കൊണ്ട് പുറത്തുള്ള വൈറസുകൾ അല്ലെങ്കിൽ സ്പൈവെയർ ഇതിനെ ബാധിക്കില്ല അതിനാൽ അത്തരമൊരു സാഹചര്യത്തിലും കമ്പ്യൂട്ടർ സിസ്റ്റം സുരക്ഷിതമാണെന്ന് നമുക്ക് പരിഗണിക്കാം ഇപ്പോൾ സിസ്റ്റത്തിൽ ഒരു ചെറിയ ന്യൂനത ഉണ്ട് അതിലൂടെ പുറത്തുള്ള വൈറസുകൾ അല്ലെങ്കിൽ സ്പൈവെയർ പ്രവേശിക്കാൻ കഴിയും ഇത് സിസ്റ്റം സുരക്ഷിതമല്ലാതാകാൻ ഇടയാക്കും അതിനാൽ ഈ ന്യൂനതയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് സിസ്റ്റം സുരക്ഷിതമല്ലാത്തതിലേക്ക് നയിച്ചേക്കാം ഇപ്പോൾ വ്യത്യസ്ത തരം കുറവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനാൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വ്യത്യസ്ത ന്യൂനതകളെ ഒന്നിലധികം വിഭാഗങ്ങളായി തിരിക്കാം ഏറ്റവും സാധാരണമായ ന്യൂനത ഡിസൈനിൽ സംഭവിക്കുന്നു നമുക്ക് വളരെ സങ്കീർണ്ണമായ ഡിസൈൻ ഉള്ള പ്രോസസ്സർ ഉണ്ടെന്ന് രൂപകൽപ്പന ചെയ്യുക അതിൽ ഒന്നിലധികം മൊഡ്യൂളുകൾ സങ്കീർണ്ണമായ പൈപ്പ്ലൈനുകൾ വലിയ മെമ്മറികൾ ഉണ്ട് ഈ ബ്ലോക്കുകളെല്ലാം വളരെ ഉയർന്ന ആവൃത്തിയിൽ പരസ്പരം ഇടപഴകുകയും നാനോ സെക്കൻഡിൽ ധാരാളം ഓപ്പറേഷൻസ് ചെയ്യുന്നു ഈ ഡിസൈനിലെ ഒരു ചെറിയ ന്യൂനത പോലും ഒരു ദുർബലതയ്ക്ക് കാരണമായേക്കാം മാത്രമല്ല അത് ഒരു ആക്രമണകാരി എക്സ്പ്ലോയിറ്റ് ചെയ്തു ഈ സിസ്റത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും വളരെ പ്രസിദ്ധമായ പോരായ്മ പെന്റിയം ഫ്ലോട്ടിംഗ് പോയിന്റ് ബഗ് ആണ് ഈ പ്രത്യേക ന്യൂനതയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ലപക്ഷേ ഇത് വിക്കിപീഡിയയിലും മറ്റും നോക്കാം ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഫലം തെറ്റായിരിക്കും വർഷങ്ങൾക്കുശേഷം ക്രിപ്റ്റോഗ്രാഫർമാർ സൈഫറിന്റെ രഹസ്യ കീകൾ predict ചെയ്യാൻ ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് ബഗ് ഉപയോഗപ്പെടുത്തി സംഭവിക്കാനിടയുള്ള ന്യൂനതകളുടെ അടുത്ത വിഭാഗം ഹാർഡ്വെയർ flaws ആണ് ഈ flaws third party പ്രത്യേക ഉദ്ദേശ്യത്തോടെ നിർമ്മിച്ച ഹാർഡ്വെയർ ട്രോജനുകളായിരിക്കാം ഉദാഹരണത്തിന് ഒരു കമ്പനി ഒരു സർക്യൂട്ട് design ചെയ്യുമ്പോഴോ ഒരു വിഎൽഎസ്ഐ ചിപ്പ് design ചെയ്യുമ്പോഴോ ഒരു മൂന്നാം കക്ഷിക്ക് ഫാബ്രിക്കേഷനായി അയയ്ക്കുമ്പോഴോ ഹാർഡ്വെയർ ട്രോജനുകൾ ഉൾപ്പെടുത്താം ഈ ട്രോജൻ സാധാരണ പ്രവർത്തനരഹിതവും ഈ ചിപ്പിന്റെ പരീക്ഷണ സമയത്ത് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്തവയാണ് എന്നിരുന്നലും ഈ ട്രോജന് ശരിയായ ട്രിഗർ ലഭിക്കുമ്പോൾ അത് ഉണരുകയും ചിപ്പിൽ പ്രവേശിക്കുകയും ചെയ്യും ഈ ഹാർഡ്വെയർ ട്രോജനുകൾ കമ്പ്യൂട്ടിംഗ് സിസ്റ്റങ്ങൾക്ക് വലിയ ഭീഷണിയാണ് കാരണം ഒരു ഐസി അല്ലെങ്കിൽ പ്രോസസർ അല്ലെങ്കിൽ ചിപ്പ് എന്നിവയ്ക്കുള്ളിൽ ഒരു ഹാർഡ്വെയർ ട്രോജൻ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വളരെ പ്രയാസമാണ് ഈ കോഴ്സിന് മൂന്നാമത്തെ വശം മനുഷ്യ ഘടകമാണ് സിസ്റ്റത്തിന്റെ രൂപകൽപ്പനയിൽ ഒരു കുറവുമില്ലെന്നും അതിൽ ട്രോജനുകളൊന്നുമില്ലെന്നും ഡിസൈനർക്ക് അവകാശപ്പെടാം ഈ സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനുണ്ടാകും സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പുകൾ ഈ ദുർബലതയ്ക്ക് കാരണമാകാം ഉദാഹരണത്തിന് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതുപോലെ നമുക്ക് ലഭിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്പാംവെയർ അല്ലെങ്കിൽ വിപുലീകരിക്കുന്ന ഇമെയിലുകൾ അല്ലെങ്കിൽ പോപ്പ് അപ്പ് വിൻഡോകൾ vulnerabilityക്ക് കാരണമാകുന്നു പലരും ഈ പോപ്പ് അപ്പുകൾക്ക് ഇരയാകുന്നതിൽ അതിശയിക്കാനില്ല സ്പാം ഇമെയിലുകളിലോ പോപ്പ് അപ്പ് വിൻഡോകളിലോ ഉള്ള ബട്ടണുകൾ ക്ലിക്കു ചെയ്യുമ്പോൾ സിസ്റ്റത്തിലേക്ക് ഒരു ബാഹ്യ ക്ഷുദ്രവെയർ വൈറസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവേശിക്കാൻ ഇടയാകും ഈ കോഴ്സിൽ വളരെയധികം സമയം ചിലവഴിക്കുന്ന നാലാമത്തെ ന്യൂനത പ്രോഗ്രാമിലെ ബഗുകൾ മൂലമാണ് ഒരു പ്രോഗ്രാമിൽ കംപൈലറുകൾക്കോ test സമയത്തോ കണ്ടെത്താൻ കഴിയാത്ത നിരവധി ബഗുകൾ ഉണ്ടാകാം ഉദാഹരണത്തിന് ഒരു അറേയിൽ നൂറു സംഖ്യകൾ സോർട്ട് ചെയ്യുന്നതിന് ഒരു പ്രോഗ്രാം എഴുതുന്ന ഒരു പ്രോഗ്രാമർ ബബിൾ അല്ലെങ്കിൽ ക്വിക്സോർട്ട് പോലുള്ള സ്റ്റാൻഡേർഡ് സോർട്ടിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുകയും പ്രോഗ്രാം കംപൈൽ ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ഇൻപുട്ട് ആയി നൂറു സംഖ്യകളോടെ പ്രോഗ്രാം റൺ ചെയ്യുകയും ചെയ്യുമ്പോൾ സോർട്ട്ഡ ആയ ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും തന്നിരിക്കുന്ന ഇൻപുട്ടിനായി പ്രോഗ്രാം ശരിയായി പ്രവർത്തിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു എന്നിരുന്നാലും അത്ര എളുപ്പത്തിൽ കണ്ടെത്താത്ത മറ്റ് ബഗുകൾ ഉണ്ടാകാം നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് പ്രവേശനം നേടുന്നതിനും സിസ്റ്റം നിയന്ത്രിക്കുന്നതിനും ഒരു ആക്രമണകാരി ചൂഷണം ചെയ്യുന്ന ന്യൂനതകളാണ് ഇവ നമ്മൾ ഇവിടെ കണ്ടത് വ്യത്യസ്ത തരം ന്യൂനതകളാണ് ഡിസൈൻ കുറവുകൾ ഹാർഡ്വെയർ കുറവുകൾ പ്രോഗ്രാമിലെ ബഗുകൾ മനുഷ്യ ഘടകം എന്നിവ നമ്മൾ കണ്ടു ഇപ്പോൾ ഒരു ആക്രമണകാരി നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആവശ്യമുള്ളത് ഒരൊറ്റ ന്യൂനത മാത്രമാണ് ആക്രമണകാരികൾ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് പ്രവേശനം നേടുന്നതിനും നിങ്ങളുടെ മുഴുവൻ സിസ്റ്റത്തേയും നിയന്ത്രിക്കുന്നതിനോ സിസ്റ്റത്തിൽ നിലവിലുള്ള രഹസ്യ ഡാറ്റ മോഷ്ടിക്കുന്നതിനോ ഇവയിലേതെങ്കിലും മതിയാകും കൂടാതെ നമ്മൾ നോക്കുന്നത് ആക്രമണകാരികൾ ഈ ബഗുകൾ മാൽവെയർ സൃഷ്ടിക്കുന്നതിനോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് ഡാറ്റ മോഷ്ടിക്കുന്നതിന്നോ യൂസ് ചെയ്യുമോ എന്നാണ് വ്യത്യസ്ത പ്രോഗ്രാമിംഗ് ഭാഷകളിൽ അത്തരം കുറച്ച് ബഗുകൾ നിലവിലുണ്ട് C പ്രോഗ്രാമുകളിൽ ഉള്ള ബഗുകളിൽ നമ്മൾ ശ്രദ്ധ ചെയ്യുകയാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിലെ ബഗുകൾ ഈ വിഭാഗത്തിൽ പെടുന്നു ഞങ്ങൾ സി സി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ മുതൽ വിർച്വൽ മെഷീനുകൾ തുടങ്ങി നിരവധി സിസ്റ്റം സോഫ്റ്റ് വെയറുകളും C C എന്നിവയിൽ എഴുതിയതാണ് കൂടാതെ ഈ സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ വളരെ വലുതാണ് മാത്രമല്ല അവ ആക്രമണകാരിക്ക് ന് സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കാനും exploit ചെയ്യാനുമുള്ള ഒരു മാർഗമായേക്കാവുന്ന അത്തരം ധാരാളം പ്രോഗ്രാമിംഗ് ബഗുകൾക്ക് സാധ്യതയുണ്ട് കോഴ്സ് സമയത്ത് ഞങ്ങൾ ബഫർ ഓവർഫ്ലോകളും ബഫർ ഓവർ reads ഡബിൾ ഫ്രീസ് യൂസ് ആഫ്റ്റർ ഫ്രീ ഇൻറിജർ ഓവർഫ്ലോകളും ഫോർമാറ്റ് സ്ട്രിംഗും നോക്കുന്നു സിസ്റ്റം സോഫ്റ്റ്വെയറിൽ അടങ്ങിയിരിക്കുന്ന ഈ ബഗുകൾ നിങ്ങളുടെ സിസ്റ്റത്തെ ആക്രമിക്കാൻ കഴിയുന്ന ഒരു ക്ഷുദ്രവെയർ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തിയിരുന്നു സിസ്റ്റം സോഫ്റ്റ്വെയറിലെ ബഗുകൾക്ക് പുറമേ നിലവിലുള്ള മറ്റ് ആപ്ലിക്കേഷനുകളിലും നിങ്ങൾക്ക് ബഗുകൾ ഉണ്ടാകാം ആധുനിക ഡാറ്റാബേസ് സിസ്റ്റങ്ങളിൽ നിലവിലുള്ള എസ്ക്യുഎൽ ഇഞ്ചക്ഷൻ ബഗ് ഒരു പൊതു ഉദാഹരണമാണ് അത്തരം ആപ്ലിക്കേഷൻ ലെവൽ vulnerabilityലേക്ക് ഞങ്ങൾ പോകുന്നില്ല സൈഡ് ചാനൽ ആക്രമണങ്ങൾ ആണ് പ്രാധാന്യം നേടുന്ന മറ്റൊരു ആക്രമണം ഈ attacks ഇവിടെ കണ്ടതുപോലുള്ള ബഗുകളിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ബഫർ ഓവർഫ്ലോകൾ heaps ഇൻറിജർ ഓവർഫ്ലോകൾ ഫോർമാറ്റ് സ്ട്രിംഗുകൾ എന്നിവ Vulnerabilities മൂലമോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗിലെ കുറവുകൾ മൂലമോ ആണെങ്കിൽ മറുവശത്ത് സൈഡ് ചാനൽ ആക്രമണങ്ങൾ ഏതെങ്കിലും ബഗിന് സാന്നിധ്യമില്ലാതെ ശരിയായി കോഡ് ചെയ്ത പ്രോഗ്രാമുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളായിരിക്കാം പിന്നീട് ഈ attacks യഥാർത്ഥത്തിൽ എങ്ങനെ വികസിപ്പിച്ചെടുത്തുവെന്ന് ഈ കോഴ്സ്ൽ ഞങ്ങൾ അന്വേഷിക്കും ഇപ്പോൾ കണ്ടത് സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ vulnerabilityലൂടെ സിസ്റ്റത്തിലേക്ക് പ്രവേശനം നേടുന്ന ക്ഷുദ്രവെയർ സൃഷ്ടിക്കാൻ ഒരു ആക്രമണകാരിക്ക് സിസ്റ്റത്തിലെ ഒരു vulnerability എങ്ങിനെ ഉപയോഗപ്പെടുത്താം എന്നാണ് പല തരത്തിലുള്ള vulnerability ഉണ്ട് ഡിസൈൻ aspects ഹാർഡ്വെയർ ട്രോജനുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ബഗുകൾ മനുഷ്യർ കാരണം flaws സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടു എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞരും ഈ തകരാറുകൾ അല്ലെങ്കിൽ സിസ്റ്റങ്ങൾക്കെതിരായ ഈ ആക്രമണങ്ങൾ തടയുന്നതിനും അല്ലെങ്കിൽ കുറഞ്ഞത് ലഘൂകരിക്കുന്നതിനും പൂർണ്ണമായും തടയുന്നിനും നിരവധി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്തരം ആക്രമണങ്ങൾ തടയുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിലൊന്ന് ഒരു കുറവുകളും ഇല്ലാതെ സിസ്റ്റങ്ങൾ രൂപകൽപ്പന ചെയ്യുക എന്നതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഈ closed box ഇവിടെ പ്രതിനിധീകരിക്കുന്ന സിസ്റ്റം എടുത്തിട്ട് സ്റ്റാറ്റിക് അനാലിസിസ് COQ മോഡൽ ചെക്കറുകൾ പോലുള്ള ഒരു ഫോർമൽ proof സഹായികൾ ഉപയോഗിച്ച് ഗണിത ശാസ്ത്രപരമായി സിസ്റ്റം വിശകലനം ചെയ്യുകയും അതിനാൽ സിസ്റ്റം flawless ആണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു പൂർണ്ണമായും സിസ്റ്റത്തിൽ കുറവുകളില്ലെങ്കിൽ സിസ്റ്റത്തിൽ ആക്രമണങ്ങളൊന്നും ഉണ്ടാകില്ല അത്തരമൊരു സംവിധാനം വികസിപ്പിക്കുന്നത് വളരെ പ്രയാസകരമാണ് കാരണം ഈ രീതിയിലുള്ള വിശകലനം ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിക് അനാലിസിസ് അഥവാ formal proofs ആണ് ഈ മെത്തേഡ്സ് വലിയ കോഡുകളിലേക്ക് scalable അല്ല അതിനാൽ ഈ പ്രവർത്തനങ്ങൾ ധാരാളം അക്കാഡമിക് സർക്കിളുകളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു അത്തരമൊരു ശ്രമം നടത്തിയത് ഓസ്ട്രേലിയൻ ഗ്രൂപ്പായ നിക്റ്റ യാണ് അവിടെ അവർ സെൽ 4 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തു ചില അനുമാനങ്ങൾക്ക് കീഴിൽ സെൽ 4 കുറ്റമറ്റതാണെന്ന് തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞു അതിനാൽ ഈ അനുമാനങ്ങൾക്ക് കീഴിൽ SeL4 ന് vulnarebilities ഇല്ല ലിനക്സ് അല്ലെങ്കിൽ വിൻഡോസ് പോലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ പോലുള്ള എല്ലാ പ്രായോഗിക സംവിധാനങ്ങൾക്കും ഈ ഉപകരണങ്ങളുടെ നിലവിലെ സാങ്കേതിക വിദ്യ കണക്കിലെടുക്കുമ്പോൾ അത്തരമൊരു വിശകലനം നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ലിനക്സ് വിൻഡോസ് പോലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ ബാധിക്കില്ലെന്ന് ഉറപ്പാക്കാൻ ക്ഷുദ്രവെയർ അല്ലെങ്കിൽ ബാഹ്യ ക്ഷുദ്ര കോഡ് പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ആവശ്യമാണ് വലിയ സിസ്റ്റങ്ങൾ കുറവുകളില്ലാതെ നിർമ്മിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ നമുക്ക് ഉറപ്പാക്കാൻ കഴിയില്ല അതിനുപകരം രണ്ടാമത്തെ സമീപനത്തിൽ നമ്മൾ സിസ്റ്റം കുറവുകളോടെ നിർമ്മിക്കും ഈ സംവിധാനത്തെ സാൻഡ്ബോക്സ് എൻവയോൺമെൻറ് എന്ന് വിളിക്കുന്നു ഈ സിസ്റ്റം നിലവിലുള്ള ഒരു കണ്ടെയ്നറായി സാൻഡ്ബോക്സ് പരിതസ്ഥിതിയെ പരിഗണിക്കാം സിസ്റ്റത്തിന് കുറവുകളുണ്ടെങ്കിലും സിസ്റ്റത്തിൽ സാൻഡ്ബോക്സ് കണ്ടെയ്നർ കാരണം ക്ഷുദ്രവെയർ സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു അതിനാൽ ഈ സാങ്കേതികത വിദ്യ മനുഷ്യ ഘടകത്തെയും ശ്രദ്ധിക്കുന്നു ഇപ്പോൾ ഒരു ഉപയോക്താവ് ക്ഷുദ്ര വെബ്സൈറ്റിലെ ഒരു ലിങ്കിൽ ക്ലിക്കുചെയ്യുകയാണെങ്കിൽ ഈ അടച്ച സാൻഡ്ബോക്സ് പരിതസ്ഥിതി കാരണം സിസ്റ്റം സുരക്ഷിതമായി തുടരും മൂന്നാമത്തെ സമീപനം ആക്രമണങ്ങൾ കണ്ടെത്തുകയും ലഘൂകരിക്കുകയും ചെയ്യുക എന്നതാണ് സാധാരണ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ചെയ്യുന്നത് ഇതാണ് ഒരു പ്രോഗ്രാം ആന്റി വൈറസ് സോഫ്റ്റ്വെയർ നടപ്പിലാക്കുമ്പോൾ പ്രോഗ്രാമിന്റെ വിവിധ സ്വഭാവസവിശേഷതകൾ നിരീക്ഷിക്കുകയും ഈ പ്രോഗ്രാം യഥാർത്ഥത്തിൽ ക്ഷുദ്രകരമായ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയാണോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തിരിച്ചറിയുകയും ചെയ്യും എക്സിക്യൂഷൻ അല്ലെങ്കിൽ ആ ബൈനറി യുടെ തന്നെ ചില പ്രത്യേകതകളെ അടിസ്ഥാനമാക്കി ആന്റി വൈറസ് സോഫ്റ്റ്വെയർ malicoious കോഡ് കണ്ടെത്തും ഈ കോഴ്സിൽ നമ്മൾ രണ്ട് ആക്രമണങ്ങളെയും പ്രതിരോധങ്ങളെയും നോക്കും ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ലെവൽ സൈഡ് ചാനൽ ആക്രമണങ്ങൾ എന്നിവ നിരീക്ഷിക്കുന്നു ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ ആക്രമണങ്ങൾ കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിലാണ് അതിനാൽ നമ്മൾ CC പ്രോഗ്രാമുകളിൽ നിലവിലുള്ള ബഗുകളും കേടുപാടുകളും ഉപയോഗിച്ച് ഒരു എക്സ്പ്ലോയിറ്റ് എങ്ങനെ എഴുതാം എന്ന് നോക്കാം ഹാർഡ്വെയർ സൈഡ് ചാനൽ ആക്രമണങ്ങൾക്കായി ക്യാഷ് ടൈമിംഗ് ആക്രമണങ്ങൾ പവർ അനാലിസിസ് ആക്രമണം തെറ്റ് കുത്തിവയ്പ്പ് ആക്രമണങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ആക്രമണങ്ങളെക്കുറിച്ച് നമ്മൾക്ക് പഠിക്കാം വർഷങ്ങളായി അത്തരം ആക്രമണങ്ങളെ തടയുന്ന popular പ്രതിരോധ തന്ത്രങ്ങളും നമ്മൾ പരിശോധിക്കും അതിനാൽ ഈ പ്രതിരോധ തന്ത്രങ്ങൾ കംപൈലറിലോ ഹാർഡ്വെയറിലോ അല്ലെങ്കിൽ ട്രസ്റ്റഡ് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെന്റുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക എൻക്ലേവുകൾ നിർമ്മിക്കുന്നതിലൂടെയോ ആയിരിക്കും ഈ കോഴ്സിന്റെ അവസാനത്തോടെ malwareന്റെ ആന്തരികത്തെക്കുറിച്ചും മറ്റ് സുരക്ഷാ ഭീഷണികളെക്കുറിച്ചും നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് സുരക്ഷാ നടപടികൾ വിലയിരുത്താനും ഹാർഡ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കംപൈലർ എന്നിവയിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങളിലേക്കോ വിവിധ ഘടകങ്ങളിലേക്കോ അവ പ്രയോഗിക്കാൻ കഴിയും ഒപ്പം പെർഫോമൻസും സെക്യൂരിറ്റിയും തമ്മിൽ ട്രേഡ് ഓഫ് നടത്താനും നിങ്ങൾക്ക് കഴിയും ഇപ്പോൾ ഈ മൂന്നാമത്തെ വശം വളരെ നിർണായകമാണ് ഉദാഹരണത്തിന് വളരെ സുരക്ഷിതമായ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വളരെ സുരക്ഷിതമായ ഒരു സിസ്റ്റം വികസിപ്പിക്കാൻ കഴിയും എന്നിരുന്നാലും ആ സിസ്റ്റത്തിലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനോ റൺ ചെയ്യുന്നതിനോ ഒരു വലിയ ഓവർഹെഡ് ആയിരിക്കും അതിനാൽ സിസ്റ്റത്തിന്റെ പ്രകടനവും നേടിയ സുരക്ഷയും തമ്മിലുള്ള ട്രേഡ് ഓഫ് വിലയിരുത്തേണ്ടത് വളരെ പ്രധാനമാണ് ഞങ്ങൾ പ്രത്യേക പാഠപുസ്തകങ്ങളൊന്നും പിന്തുടരുകയില്ല പക്ഷേ മിക്കപ്പോഴും ഗവേഷണ പ്രബന്ധങ്ങളും ഉചിതമായ ലിങ്കുകളും വീഡിയോകളുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുകയും ഈ ലിങ്കുകൾ സ്ലൈഡുകളിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ലിങ്കുകൾ ഡൌൺലോഡ് ചെയ്യാനും വായിക്കാനും കഴിയും കോഴ്സ് സമയത്ത് ഞങ്ങൾ നിരവധി വ്യത്യസ്ത പ്രോഗ്രാമുകൾ വിലയിരുത്തുകയും ഈ പ്രത്യേക പ്രോഗ്രാമുകൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ധാരാളം നിർദ്ദേശങ്ങളും Bitbucket repositoryൽ നിന്ന് നിങ്ങൾക്ക് ഡൌൺലോഡ് ചെയ്യാൻ കഴിയും കൂടാതെ നിങ്ങൾക്ക് പരീക്ഷിക്കാൻ കഴിയുന്ന സ്ലൈഡുകളും മറ്റ് അസൈൻമെന്റുകളും അടങ്ങിയിരിക്കുന്നു നന്ദി